ഹെല്ലോദുരന്തനിവാരണത്തെക്കുറിച്ചുംപുനർനിർമ്മാണത്തെയും കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം ഈ പ്രഭാഷണത്തിൽ സംസ്കാരത്തെക്കുറിച്ചും പ്രത്യേകിച്ച് ദുരന്തസാധ്യതയെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും ഈ പ്രഭാഷണം ഒരു ആശയം നൽകും ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റിൽ സംസ്കാരം വളരെ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നോ അല്ലെങ്കിൽ അപകടസാധ്യത മനസ്സിലാക്കുന്നതിനോ ഉള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് സംസ്കാരത്തിന്റെ അർത്ഥമെന്താണെന്നും സമൂഹത്തിൽ സംസ്കാരം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നും നമ്മൾ പരിശോധിക്കും നമ്മുടെ സാഹചര്യത്തിൽ ഈ ദുരന്തസാധ്യതയെ കുറിച്ചുള്ള ആളുകളുടെ ധാരണയെയും വീക്ഷണത്തെയും അത് എങ്ങനെ സ്വാധീനിക്കും ദുരന്തത്തിന്റെ നേരിട്ടുള്ള അർത്ഥം നൽകില്ല പക്ഷേ നമ്മൾ സംസ്കാരത്തെയും അപകടസാധ്യതയെയും വിശാലമായ വീക്ഷണകോണിൽ നിന്ന് നോക്കും ശരി ഞാൻ ശുഭജ്യോതി സമദ്ദർ ഡിസാസ്റ്റർ പ്രിവൻഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യോട്ടോ യൂണിവേഴ്സിറ്റി ജപ്പാനിൽDisaster Prevention Research Institute Kyoto University Japan നിന്നാണ് സാധാരണഗതിയിൽ കൺവെൻഷണൽ തിയറിയിൽ അപകടസാധ്യതയെക്കുറിച്ചുള്ള വ്യക്തിയുടെ ധാരണ അപകടസാധ്യത എത്ര വലുതാണ് എക്സോജീനസ് വാരിയബിൾ എന്നിവയെ കുറിച്ച് ചിന്തിക്കുന്നു അപകടസാധ്യത വലുപ്പത്തിൽ മാഗ്നിട്യൂഡിൽ വലുതാണെങ്കിൽ ആളുകൾക്ക് അപകടസാധ്യതയെ കുറിച്ച് ധാരണയുണ്ടാവും പക്ഷേ ഇത് ഇപ്പോൾ വളരെ പരമ്പരാഗതമായ ഒരു ആശയമാണ് അതിനാൽ പരമ്പരാഗത റിസ്ക് പെർസെപ്ഷൻ തിയറികളിലും സമ്പ്രദായങ്ങളിലും എക്സ്റ്റേർണൽ റിസ്ക് സ്റ്റിമുലസ് വളരെ പ്രധാനമാണ് റിസ്ക് മാനേജ്മെന്റ് പരിശ്രമംപരമ്പരാഗത റിസ്ക് മാനേജ്മെന്റ് ശ്രമങ്ങൾ അനാവശ്യ സംഭവങ്ങളെ തടയുന്നതിനുംഅതിന്റെ അനന്തരഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അപകടകരമായ അനാവശ്യ സംഭവത്തിന്റെ അനന്തരഫലങ്ങൾ കുറയ്ക്കുന്നതിനുമാണ് ഇവിടെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയും കല്ല് വലുതാണെങ്കിൽ ആളുകൾക്ക് അപകടസാധ്യതയെക്കുറിച്ച് കൂടുതൽ ധാരണയുണ്ടാവും കല്ല് ചെറുതാകുമ്പോൾ ആളുകൾക്ക് അപകടസാധ്യതയെ കുറിച്ചുള്ള ധാരണയും കുറയുംഅതായത് ചെറിയ അപകടസാധ്യതയാണെന്നുള്ള ധാരണ ഇപ്പോൾ പരമ്പരാഗത സിദ്ധാന്തത്തിൽ ദുരന്തസാധ്യതയെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും അപകടസാധ്യതയെക്കുറിച്ചോ ഉള്ള പരമ്പരാഗത ധാരണ അപകടസാധ്യതയുള്ള വ്യക്തികൾ അപകടസാധ്യതയുടെ പാസ്സീവ് റെസിപ്പിയന്റ് എന്നതാണ് അതിനർത്ഥം അവർ അപകടസാധ്യതയുടെ അർത്ഥം കൈകാര്യം ചെയ്യുകയോ വ്യാഖ്യാനിക്കുകയോ നിർമ്മിക്കുകയോ ചെയ്യുന്നില്ല അവിടെ എന്താണ് ഉള്ളതെന്ന് അവർ കാണുന്നു അപകടസാധ്യത വളരെ ഒബ്ജെക്റ്റീവ് ആണ് എന്താണ് ഇത് ഒരു പ്രത്യേക അപകടത്തിന്റെ സാധ്യതയെയും ആ അപകടത്തിന്റെ അനന്തരഫലത്തെയും ആശ്രയിച്ചിരിക്കുന്നു അത് എങ്ങനെ മനുഷ്യനഷ്ടത്തിനും സ്വത്ത് നാശത്തിനും കാരണമാകും അതായത് ഈ സിദ്ധാന്തത്തിൽ എല്ലാ വ്യക്തികളും ഒരു കുഞ്ഞിനെ പോലെ ഒരു പാസ്സീവ് റെസിപ്പിയന്റ് ആണ്അവിടെ ഒരു സ്വതന്ത്ര സ്റ്റിമുലസ് ഉണ്ട് അതാണ് അപകടം അവർക്കായിഅപകടസാധ്യത മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകാനുള്ള പ്രത്യേക മാർഗം വേണം അഥവാ റിസ്ക് കമ്മ്യൂണിക്കേഷൻവേണം അവിടെ സ്വീകർത്താവ് ഉണ്ട് അതാണ് ഉറവിടം അവർ സന്ദേശം അയയ്ക്കുന്നു കൂടാതെ മാസ് മീഡിയ ടെലിവിഷനുകൾ റേഡിയോ പത്രം എന്നിവയിലൂടെ പ്രേക്ഷകർക്ക് മുന്നറിയിപ്പ് കൊടുത്ത് ഒരു പ്രത്യേക അപകടത്തിന്റെ വ്യാപ്തിയും അനന്തരഫലവും അവർ അറിയാനും അതിന് തയ്യാറെടുക്കാനും അവരെ സഹായിക്കണം വലതുവശത്ത് നിങ്ങൾ നോക്കിയാൽചില മെത്തേഡോളജിക്കൽ ഏജൻസികളുംചില ശാസ്ത്ര സ്ഥാപനങ്ങളും കാണാംഅവർ വിവരങ്ങൾ ശേഖരിക്കും ശാസ്ത്രീയ വിവരങ്ങളുംപിന്നീട് മാധ്യമങ്ങൾ വഴി അവർ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുഅപകടസാധ്യതയുള്ള സാധാരണ ജനങ്ങൾക്ക് അതിനാൽ ഇതാണ് അപകടസാധ്യതയുടെ ആശയവിനിമയത്തിന്റെ പ്രധാന മാതൃക അപകടസാധ്യതയെക്കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ എങ്ങനെ ജനങ്ങളിലേക്ക് കൈമാറാം എന്നതാണ് പ്രധാന ആശങ്ക അവർ ഈ വിവരങ്ങൾ അയയ്ക്കുമ്പോൾ അവർ 2 ആസ്പെക്റ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഒന്ന് ആ സംഭവത്തിന്റെ സാധ്യതകളും അനന്തരഫലങ്ങളും ഒരു വിവര വാഹകനിൽ നിന്ന്അതാണ് റിസീവറിലേക്കുള്ളട്രാൻസ്മിറ്റർ അഥവാ സോഴ്സിൽ നിന്ന് റിസീവറിലേക്ക് അങ്ങനെ ഈ വഴിയിൽ അവർ അപകടസാധ്യത അറിയിക്കുന്നു എന്നാൽ ആളുകൾ വാദിക്കുന്നു അവരുടെ സമ്പ്രദായങ്ങളിൽ നിന്ന് ഫീൽഡ് കുറിപ്പുകളിൽ നിന്ന് ഗവേഷകർ അവരുടെ പഠനങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഇത് മതിയാകില്ല എന്ന് വിവരങ്ങൾ നന്നായി രൂപാന്തരപ്പെടുത്തേണ്ടത് റിസ്ക് കമ്മ്യൂണിക്കേഷനുകളുടെ വളരെ പ്രധാനപ്പെട്ടതും വളരെ നിർണായകവുമായ ഘടകമാണ് ലോക്കൽ കമ്മ്യൂണിറ്റികളുടെപിൻമാറ്റം പെട്ടെന്നാക്കാൻ അത് വേണം പക്ഷേ അത് പോരാ അത് ലളിതമാണ് കാരണം ആളുകൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു അപകടസാധ്യതയുടെ അർത്ഥംഅത് വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്കും ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്കും വ്യത്യാസപ്പെടുന്നു അതിനാൽ ഒരു കൂട്ടർക്ക് എന്തെങ്കിലും അപകടസാധ്യതയുള്ളതാവാംമറ്റൊരു കൂട്ടം ആളുകൾക്ക് അത് അപകടകരമല്ല അതിനാൽ ഇവിടെ അപകടത്തിന്റെ അർത്ഥം പങ്കിടുന്ന ഒരു തരം സമവായം ആവശ്യമാണ് ഉദാഹരണമായി പാമ്പ് അപകടകരമാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചാൽഅത് അപകടസാധ്യതയുള്ള ഒരു മൃഗമാണ് എന്ന് തോന്നിയാൽ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുപക്ഷെ ചിലർ അതിനെ അടിക്കാൻ ശ്രമിക്കുന്നു കൊല്ലാൻ ശ്രമിക്കുന്നുവേറൊരാൾ ചിത്രമെടുക്കുന്നുമറ്റു ചിലർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതിനാൽ ആളുകൾക്ക് എല്ലാം സ്റ്റിമുലസ്ഒരു പാമ്പാണ് പക്ഷേ ആളുകൾക്ക് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട് അപകടസാധ്യതയെക്കുറിച്ച് വ്യത്യസ്ത ധാരണകൾ ആണ് അവർക്ക് ഇത് വളരെ രസകരമാണ് അതിനാൽ എന്താണ് അപകടസാധ്യത അത് അപകടങ്ങളുടെ വ്യാപ്തിയെയും അനന്തരഫലങ്ങളെയും സാധ്യതയെയും അനന്തരഫലങ്ങളെയും ആശ്രയിക്കുന്നില്ല എന്നാൽ ഇത് ആളുകൾ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ആ അപകടം മനസ്സിലാക്കുന്നതിനെ ഇപ്പോൾ പരമ്പരാഗത സിദ്ധാന്തം എന്ന നിലയിൽ അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ദുരന്തത്തിന്റെ സാധ്യതയിലും അനന്തരഫലങ്ങളിലും അപകടകരമായ സംഭവങ്ങളിലുമാണ് അവർക്ക് പൊതുവെ പരമ്പരാഗത റിസ്ക് മാനേജ്മെന്റിന്റെ 2 വഴികളുണ്ട്ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് അത് വളരെ ഡയറെക്റ്റീവ് ആണ് അപകടസാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടി ശരിയെന്ന് അവർ പറയുന്നു നിങ്ങൾക്ക് ചില നിർദ്ദിഷ്ട ലക്ഷ്യങ്ങളുണ്ടെന്നും നിങ്ങൾക്ക് ചില പ്രത്യേക പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ടെന്നും അത് ചെയ്യുമ്പോൾ അവ വളരെ റിയാക്റ്റീവ് ആണ് പ്രശ്നം പരിഹരിക്കാനുള്ള ഒരേയൊരു വഴി ഇതാണ് എന്ന് അവർ ചിന്തിക്കുന്നു ശരി പ്രശ്നം പരിഹരിക്കാനുള്ള ഒരേയൊരു മാർഗ്ഗം ഇതാണ് അതിനാൽ ടാർഗെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ ആ ലക്ഷ്യം എങ്ങനെ നടപ്പിലാക്കാം അത്രമാത്രം പക്ഷേ അപകടസാധ്യതയുടെ മറ്റ് ചില കാഴ്ചപ്പാടുകളുണ്ട് ആളുകളുടെ അപകടസാധ്യതകളെ നിർണ്ണയിക്കുന്നത് ആ ബാഹ്യ സ്റ്റിമുലസ് അല്ല മറിച്ച് അത് സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളോ വ്യക്തിഗത സവിശേഷതകളോ ആണെന്ന് അവർ പറയുന്നു അത് ആളുകൾ അപകടസാധ്യത മനസ്സിലാക്കുന്ന രീതി നിർവചിക്കുന്നു അപകടസാധ്യതയുടെ സാംസ്കാരിക വീക്ഷണകോണിൽ നിന്നാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് അപകടസാധ്യതയുടെ സാംസ്കാരിക വീക്ഷണത്തിന് വ്യക്തികൾ സജീവമായ വിവര അന്വേഷകരാണ് അവർ വിവരങ്ങളുടെ പാസ്സീവ് റെസിപ്പിയന്റ് അല്ല എന്നാൽ അവർ സ്വന്തം വീക്ഷണം വികസിപ്പിക്കുന്നതിന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു സ്വന്തം വീക്ഷണം ഒരാൾക്ക് അത് 6 ആണെന്ന് തോന്നുംമറ്റേ ആൾക്ക് അത് 9 ആയിരിക്കാംഒരാൾക്ക് ഇത് 4 ആണ് മറ്റൊരാൾക്ക് ഇത് 3 ആണ് അതിനാൽ നിങ്ങൾ അതിനെ ഏത് കോണിൽ നിന്ന് ഏത് വീക്ഷണകോണിൽ നിന്ന് എങ്ങനെ കാണുന്നു എന്നതാണ് കാര്യം അച്ഛൻ അത് എങ്ങനെ കാണുന്നു കുട്ടി അത് എങ്ങനെ അനുഭവിക്കുന്നു അമ്മ എങ്ങനെ കാണുന്നു എന്നതിന് മറ്റൊരു നല്ല ഉദാഹരണം ഇതാ അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ദൈർഘ്യം പ്രശ്നമല്ല എന്നാൽ അത് വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്കുംഒരാളിൽ നിന്ന് വേറെ ഒരാളിലേക്കും ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പിലേക്കും സ്ഥാപനങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിലേക്കും വ്യത്യാസപ്പെടുന്നു ഒരേ സ്റ്റിമുലസ് തന്നെ വ്യത്യസ്ത വീക്ഷണകോണിൽവ്യത്യസ്ത കോണിൽ കാണുന്നു ഗ്രഹിക്കുന്നയാൾ തീർച്ചയായും ഒരു വ്യക്തിയല്ലഅത് ഒരുതരം സ്ഥാപനങ്ങളോ സംഘടനകളോ ആണ് ഗ്രൂപ്പുകൾ ആയി താമസിക്കുന്ന ആൾക്കാർ ആണ് അതിനാൽ വ്യക്തി ഉൾപ്പെടുന്ന സ്ഥാപന ഘടനയാണ് റിസ്ക് പെർസെപ്ഷന്റെ ആത്യന്തിക കാരണം അതിനാൽ പങ്കിട്ട അർത്ഥത്തിന്റെ സൃഷ്ടിയും കൈമാറ്റം ചെയ്യപ്പെട്ട വിവരങ്ങളിൽ ഉള്ള വിശ്വാസവും അതിനാൽ പ്യൂരിറ്റി ആൻഡ് ഡേഞ്ചറിന്റെ ഒരു മികച്ച കൃതി ഉണ്ടായിരുന്നു1996 ൽ ആന്ത്രോപോളജി യുടെ ആധുനിക ക്ലാസിക് ആയി ഇതിനെ കണക്കാക്കുന്നുഅതിനാൽ മേരി ഡഗ്ലസ് 1966 ൽ തന്റെ പുസ്തകത്മായ പ്യൂരിറ്റി ആൻഡ് ഡേഞ്ചറിൽ അപകടത്തിന്റെ സാംസ്കാരിക പ്രാധാന്യത്തെക്കുറിച്ചും അപകടസാധ്യതയുടെ സാംസ്കാരിക വീക്ഷണത്തെക്കുറിച്ചും സംസാരിക്കുന്നു എന്തുകൊണ്ട് എന്താണ് സംസ്കാരം എന്തുകൊണ്ട് അത് വളരെ പ്രധാനമാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റിനെക്കുറിച്ചോ റിസ്ക് മാനേജ്മെന്റിനെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ സംസ്കാരം വളരെ പ്രധാനമാണെന്ന് അവൾ വാദിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ സാംസ്കാരിക വശം മനസ്സിലാക്കേണ്ടത്അല്ലെങ്കിൽ നമ്മൾ കാണാതെപോയി നമുക്ക് വേണ്ടത്ര ആശയവിനിമയം നടത്താൻ കഴിയില്ലനമുക്ക് വേണ്ടത്ര അപകടസാധ്യത കൈകാര്യം ചെയ്യാൻ കഴിയില്ല അപകടസാധ്യതയ്ക്കെതിരെ തയ്യാറെടുക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കാനാവില്ലനമുക്ക് നോക്കാം അവൾ ലെവിറ്റികസ് പഠിക്കുകയായിരുന്നു നിങ്ങൾക്ക് ലെവിറ്റികസ് അറിയാമെന്ന് ഞാൻ കരുതുന്നു ഇത് ഒരുതരം മതഗ്രന്ഥമാണ് ധാർമ്മികതയെക്കുറിച്ചുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന നിയമ പുസ്തകം എന്തുചെയ്യണം എന്തുചെയ്യരുത് എന്നിങ്ങനെ അതിനാൽ ഇത് ഇസ്രായേലി ജനതയുടെയും യഹൂദരുടെയും മൂന്നാമത്തെ പുസ്തകമാണ് അത് വന്നു എന്നർത്ഥമുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ലെവിറ്റിക്കസ്ഉണ്ടായത്ഈ പുസ്തകം വിശുദ്ധജീവിതവുമായി ബന്ധപ്പെടുത്തി അഞ്ച് അടിസ്ഥാന വിഷയങ്ങൾ വിശദീകരിക്കുന്നു ഒരു വിശുദ്ധ ദൈവം ഒരു വിശുദ്ധ പൌരോഹിത്യം ഒരു വിശുദ്ധ ജനത ഒരു വിശുദ്ധ ഭൂമി ഒരു വിശുദ്ധ രക്ഷകൻ ഇപ്പോൾ ഈ ലെവിറ്റികസ് ഇസ്രായേൽ ജനതയോട് പറയുന്നു ഹേയ് എന്റെ ഫോർക്കിൽ പന്നിയിറച്ചി വേണ്ട നിങ്ങൾക്ക് പന്നിയിറച്ചി കഴിക്കാൻ കഴിയില്ല എന്റെ ഫോർക്കിൽ പന്നിയിറച്ചി ഇല്ല അതിനാൽ ഇസ്രായേലി ആളുകൾക്ക് പന്നിയിറച്ചി കഴിക്കാൻ പാടില്ല എന്തുകൊണ്ട് അവർക്ക് കഴിക്കാൻ കഴിയില്ല എന്ന് മേരി ഡഗ്ലസിന്ജിജ്ഞാസ ഉണ്ടായിരുന്നു പന്നിയിറച്ചി എന്താണ് കാരണം എന്തുകൊണ്ടാണ് അവർ ഇത് ഒരുതരം അപകടകരമായ മലിനീകരണമായി കണ്ടത് അവൾ ദുരന്തത്തിന്റെ ഗവേഷണത്തിലേക്ക് ശ്രദ്ധിച്ചില്ല പക്ഷേ അവൾ മലിനീകരണത്തിലേക്ക് നോക്കുന്നു അതും ഒരുതരം അപകടമാണ് എന്താണ് പരിശുദ്ധിയും അപകടവും എന്തുകൊണ്ടാണ് ഇത് അപകടകരമായത് അതിനാൽ പന്നിയിറച്ചിയിൽ ചില തരത്തിലുള്ള പാരസൈറ്റുകൾ ഉണ്ടെന്ന് ആരോ വാദിച്ചു അതിനാൽ നിങ്ങൾ കഴിച്ചാൽപന്നിയിറച്ചി കഴിച്ചാൽ പാരസൈറ്റുകൾനിങ്ങളെ ബാധിക്കും നിങ്ങളുടെ ശരീരത്തെ ബാധിക്കുംപാരസൈറ്റുകളെയുംകഴിക്കും ട്രിച്ചിനെല്ല സ്പൈറലിസ് അതിനാൽ പന്നിയിറച്ചിയിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ഈ പ്രത്യേക പാരസൈറ്റ് അതിനാലാണ് നിങ്ങൾ പന്നിയിറച്ചി കഴിക്കരുതെന്ന് ഇസ്രായേലി ജനതയ്ക്ക് കൽപ്പന നൽകിയത് പക്ഷേ മേരി ഡഗ്ലസ്തർക്കിച്ചു അത് ശരിക്കും അങ്ങനെയാണെങ്കിൽ അത് ശാസ്ത്രീയമായി ശരിയോ തെറ്റോ ആകാം അതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്നാൽ അത് ശരിയാണെങ്കിൽ പന്നിയിറച്ചി കഴിക്കുന്ന മറ്റനേകം രാജ്യങ്ങളെ അപേക്ഷിച്ച് ശാസ്ത്രപരമായും സാങ്കേതികമായും വളരെയധികം മുന്നേറിയിരുന്ന രാജ്യമാണ് ചൈന ചൈനക്കാർക്ക് പന്നിയിറച്ചി കഴിക്കരുതെന്ന് നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇസ്രായേലിൽ ഇസ്രായേലിൽ പന്നിയിറച്ചി കഴിക്കരുതെന്ന് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു എന്തിനാണ് വ്യത്യാസം അവന്റെ ചാനൽ വളരെ പുരോഗമിച്ചതാണ് കഴിക്കാൻ പാടില്ലാത്ത ഈ പാരസൈറ്റുകളുടെപ്രശ്നങ്ങൾ അവർക്കറിയില്ല പന്നിയിറച്ചി അവരുടെ ആരോഗ്യപരമായ കാരണത്താലാണ് ശരിക്കും ആരോഗ്യ കാരണം കൊണ്ടാണോ പന്നിയിറച്ചി കഴിക്കരുത്അപകടമാണ് എന്ന് ഇസ്രായേലി ജനത പറയുന്നത് അപ്പോൾ ഇങ്ങനെ വാദിക്കുന്ന ഒരാൾ ഇസ്രായേലിൽ ആണെങ്കിൽ അവർക്ക് പന്നിയിറച്ചി കിട്ടില്ല അതിനാൽ തൽഫലമായി നിങ്ങൾ പന്നിയിറച്ചി കഴിക്കരുത് കാരണം അവ എണ്ണത്തിൽ വളരെ കുറവാണ് അതിനാൽ നിങ്ങൾ പന്നിയിറച്ചി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഇനങ്ങളെ അപകടത്തിലാക്കും ആ ഇനത്തിന്റെ അസ്തിത്വം ഇപ്പോൾ മേരി ഡഗ്ലസ്വാദിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരുതരം ആസ്തി പോലെ ഉപയോഗിക്കാംസ്വർണ്ണം പോലെ നിങ്ങൾക്ക് ഇത് വിൽക്കാം ഒരു എൻഡോവ്മെന്റായി എന്റെ പക്കൽ കൂടുതൽ പന്നിയിറച്ചി ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാം ഞാൻ കൂടുതൽ സമ്പന്നനാണ് എനിക്ക് കൂടുതൽ പന്നികളുണ്ട് പക്ഷേ അവർ അത് ചെയ്തില്ല അവർ നിയന്ത്രണങ്ങൾ മാത്രമാണ് ഏർപ്പെടുത്തിയത് അപ്പോൾ അവൾ അവിടെ വന്ന് ഒരു പഠനം നടത്തി ടാക്സോണമിക് അനോമലീസ് ഡയറ്ററി റെസ്ട്രിക്ഷൻസ് നെ കുറിച്ച് അവൾ മനസ്സിലാക്കി അതെന്താണ് ടാക്സോണമിക് അനോമലീസ് ഡയറ്ററി റെസ്ട്രിക്ഷൻസിന്റെ അർത്ഥമെന്താണെന്ന് നിങ്ങൾക്കറിയാമോ ശരി യഹൂദരുടെ അഭിപ്രായത്തിൽ ചില ഭക്ഷണങ്ങൾ ശുദ്ധമാണ് ചിലത് അത്ര ശുദ്ധമല്ല എന്തുകൊണ്ടാണ് അത് അങ്ങനെ അതിനാൽ ഇത് എന്തുകൊണ്ടാണെന്ന് മനസിലാക്കാൻ മേരി ഡഗ്ലസ് ശ്രമിച്ചു തുടർന്ന്അവർ ഒരു ഐഡിയ കൊണ്ട് വന്നുടാക്സോണോമിക് അനോമലീസ് ഓൺ ഡയറ്ററി റെസ്ട്രിക് ഷൻസ് എന്താണ് ടാക്സോണോമിക് അനോമലീസ് ഓൺ ഡയറ്ററി റെസ്ട്രിക് ഷൻസ് മേരി ഡഗ്ലസ് കണ്ടെത്തിലെവിറ്റികസ് അനുസരിച്ച് യഹൂദന്മാരുടെ ഇസ്രായേലി പ്രകാരം ആളുകൾക്ക് പന്നികളെ തിന്നാൻ കഴിയില്ല കാരണം പന്നികൾ അനോമാലീസ് ആണ് പന്നികൾക്ക് പശുവിനെപ്പോലെയോ കുതിരയെപ്പോലെയോ പിളർന്ന കുളമ്പുകൾ ഉണ്ട് എന്നാൽ പന്നികൾ അയവിറക്കുന്നില്ല കരയിലെ മൃഗങ്ങൾ സാധാരണയായി കുതിരയെയോ പശുവിനെയോ പോലെയാണ് അവയ്ക്ക് പിളർന്ന കുളമ്പുകളാണുള്ളത് അവ അയവിറക്കുകയും ചെയ്യുന്നു എന്നാൽ പന്നികൾ മാത്രം അയവിറക്കാറില്ല അതുകൊണ്ട് അവ അനോമലീസ് ആണ് അവർക്ക് പിളർന്ന കുളമ്പുകളാണ് എന്നാൽ അവ അയവിറക്കുന്നില്ല അതാണ് വ്യത്യാസം എന്ന് നമുക്ക് കാണാൻ കഴിയും അതാണ് അതിന്റെ അപാകത പാമ്പിന്റെ കാര്യത്തിൽ ഇസ്രായേലി ജൂതന്മാരുടെ നിയമമനുസരിച്ച് നിങ്ങൾ പാമ്പിനെ തിന്നരുത് കാരണം അവർ കരയിലാണ് താമസിക്കുന്നത് പക്ഷേ അവർക്ക് കാലുകളില്ല അത് വളരെ അപൂർവമാണ് കരയിൽ ജീവിക്കുന്ന കാലില്ലാത്ത മറ്റ് മൃഗങ്ങളെ നിങ്ങൾ കാണാൻ കഴിയില്ല കരയിലുള്ള എല്ലാ മൃഗങ്ങൾക്കും കാലുകളുണ്ട് അതിനാൽ ആരെങ്കിലും കാലുകൾ ഇല്ലാതെ കരയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ഇത് അപാകതയായി കണക്കാക്കണം അതായത് ടാക്സോണമിക് അനോമലീസ് കൂടാതെ ഷെൽഫിഷ് ഷെൽഫിഷി നെ മത്സ്യമായി കണക്കാക്കുന്നു അവ വെള്ളത്തിലാണ് ജീവിക്കുന്നത് എന്നാൽ അവയ്ക്ക് ഫിൻസ് സ്കേൽസ് യഥാർത്ഥ മത്സ്യങ്ങളുടെ സ്വഭാവസവിശേഷതകൾ ഒന്നും ഇല്ല അവയ്ക്ക് ഫിൻസുകളോ ഗ്രില്ലുകളോ ഇല്ല ശരി അതിനാൽ നിങ്ങൾ ഷെൽഫിഷ് കഴിക്കരുത് കാരണം അത് ഒരു അപാകതയാണ് അതിനാൽ ഇവിടെ എന്താണ് മലിനമായത് കഴിക്കുന്നത് അപകടകരമായതിന്റെ പട്ടിക നൽകുന്നു വൃത്തിയില്ലാത്ത ഭക്ഷണവും ശുദ്ധമായ ഭക്ഷണവും അവ വൃത്തിഹീനമായ ഭക്ഷണങ്ങളായി കണക്കാക്കുന്നു കർത്താവും അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളും വെറുക്കുന്ന മ്ലേച്ഛതയുള്ളവയായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ഈ അശുദ്ധമായ മലിനമായ മൃഗങ്ങളെയോ ഇനങ്ങളെയോ നിങ്ങൾ കഴിക്കരുത് എന്നാൽ വർഗ്ഗീകരണ അപാകതകളെക്കുറിച്ച് ഇസ്രായേലി മാത്രം എന്തിന് ശ്രദ്ധിക്കണം തീർച്ചയായും ഇത്തരം ആശങ്കകൾ ഇസ്രായേലികൾക്ക് മാത്രമുള്ളതല്ലെന്നും എന്നാൽ സാമൂഹിക ഘടനയുടെയോ മറ്റ് പല ഗോത്ര സമൂഹങ്ങളുടെയോ പിന്തുണ കൊണ്ട് ഇന്ന് അത് തഴച്ചുവളരുന്നുവെന്നും ഡഗ്ലസ് വാദിച്ചു ഹൈന്ദവ ആചാരങ്ങൾക്കുള്ളിൽ പോലും കാരണം വ്യത്യസ്തമായിരിക്കാം എന്നാൽ പല ഭക്ഷണങ്ങളും മലിനമായതും അപകടകരവും ആയി കണക്കാക്കുന്നുപലരും സസ്യഭുക്കുകളും ആണെന്ന് നമുക്ക് കാണാൻ കഴിയും പശുക്കൾ പവിത്രമായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ടാണ് നിങ്ങൾ പശുവിനെ ഭക്ഷിക്കരുത് എന്ന് പറയുന്നത് അവരും പലപ്പോഴും പന്നിയിറച്ചി ഒഴിവാക്കുന്നു ഒച്ചുകളോ മുതലകളോ നിങ്ങൾക്ക് കഴിക്കാൻ കഴിയില്ല കൂടാതെ നിരവധി പക്ഷികളെ ഹിന്ദു ഭക്ഷണക്രമത്തിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ മുസ്ലീം സംസ്കാരത്തിലും ഹലാൽ ഹറാം എന്നീ ആശയങ്ങൾ യഥാർത്ഥത്തിൽ അപകടകരവും അല്ലാത്തതും ശുദ്ധവുംമലിനമായതും വേർതിരിക്കുന്നു അതിനാൽ ആ തരത്തിൽ പറഞ്ഞാൽ അപകടസാധ്യത നിർണ്ണയിക്കുന്നത് ബാഹ്യ ഉത്തേജനമല്ല എന്നാൽ റിസ്ക് അടിസ്ഥാനപരമായി സാംസ്കാരികമായി നിർമ്മിച്ചതാണ് നമ്മൾ സാംസ്കാരികമായി പക്ഷപാതപരമാണ് അതിനാൽ ആളുകൾ അവരുടെ ചുറ്റുമുള്ള ലോകത്തെ എങ്ങനെ കാണുന്നു എന്നത് അവരുടെ സാംസ്കാരിക ജീവിതരീതിയെ ആശ്രയിച്ചിരിക്കുന്നു പക്ഷപാതപരമായി എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് നല്ലതോ തെറ്റോ എന്നാണ് നല്ലതോ ചീത്തയോ ആണെന്ന് ഞാൻ കരുതുന്നു ഇത് ആളുകൾ അവരുടെ ഒരു ലെൻസിൽ കൂടി അവർ അത് നോക്കുന്ന രീതി അനുസരിച്ചിരിക്കുംആളുകൾ പുറം ലോകത്തേക്ക് നോക്കുന്ന രീതി അപ്പോൾ എന്താണ് സംസ്കാരം അത് വളരെ പ്രധാനമാണെങ്കിൽ സംസ്കാരത്തിന്റെ അർത്ഥമെന്താണെന്ന് നമുക്ക് ഇവിടെ നോക്കാം അത് നമ്മുടെ അപകടസാധ്യതകളെ നിർവചിക്കുമ്പോൾ അത് അപകടസാധ്യതയെ മാത്രമല്ല പല കാര്യങ്ങളെയും നിർവചിക്കുന്നു എന്നാൽ എങ്ങനെ എന്താണ് സംസ്കാരം കോണ്ട് അർഥമാക്കുന്നത്പ്രേരണ നിയന്ത്രിക്കുന്നതും നമ്മുടെ അപകട ധാരണകളെ രൂപപ്പെടുത്തുന്നതും എങ്ങനെ ഇത് നമ്മൾ മനുഷ്യരാണ് ഇത് പശുവാണ് ഇത് നായയാണ് ഇത് സിംഹമാണ് നമ്മൾ വ്യത്യസ്തരാണോ അതെ നമ്മൾ ശരിക്കും വ്യത്യസ്തരാണ് ശാരീരികമായി നമ്മൾ വ്യത്യസ്തരാണ് അവർക്ക് 4 കാലുകളുണ്ട് നമുക്ക് 2 കാലുകളുണ്ട് അവർക്ക് കൈകളില്ല നമുക്ക് 2 കൈകളുണ്ട് തീർച്ചയായും നമ്മൾ ശാരീരികമായും സാമൂഹികമായും വൈകാരികമായും വ്യത്യസ്തരാണ് ബുദ്ധിപരമായും നമ്മൾ വ്യത്യസ്തരാണ് അവർക്ക് സംസാരിക്കാൻ കഴിയില്ല നമുക്ക് സംസാരിക്കാൻ കഴിയും നമുക്ക് ഭാഷയുണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരു ദ്വീപിലേക്ക് പോകണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഗാഡ്ജറ്റുകളും എല്ലാ ആഡംബര വസ്തുക്കളും ഒരു ഗംഭീര കെട്ടിടവും എല്ലാ ഇന്റർനെറ്റ് സൌകര്യങ്ങളും ഒരു നല്ല കാർ എന്നാൽ എല്ലാ ഭക്ഷണങ്ങളും ഏത് തരത്തിലുള്ള ഭക്ഷണങ്ങളും ഏത് രാജ്യത്ത് നിന്നുള്ളതാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് ധരിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് വസ്ത്രവും ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങളോട് ഒരു ദ്വീപിലേക്ക് പോകാനും അവിടെ ജീവിക്കാനും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു മറ്റൊരു മനുഷ്യനില്ല മറ്റ് ആളുകളില്ല എന്നതാണ് ഒരു വ്യവസ്ഥ അവിടെ നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷനോ ഫോൺ കണക്ഷനുകളോ ഇല്ല നീ അവിടെ താമസിക്കും നീ അവിടെ താമസിക്കുമോ ചില ആളുകൾ വളരെ അസാധാരണമായേക്കാം അവർ അവിടെ താമസിച്ചേക്കാം പക്ഷേ 99 ആളുകളും അല്ലെങ്കിൽ അതിലും കൂടുതൽ ആളുകളും ഞാൻ അവിടെ പോകാൻ സമ്മതിക്കില്ല എന്ന് പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്തുകൊണ്ട് എനിക്ക് അവിടെ പോകാൻ താൽപ്പര്യമില്ല എനിക്ക് എല്ലാ സൌകര്യങ്ങളും ഉണ്ട് ഞാൻ നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട് എനിക്ക് ആവശ്യമുള്ളതെല്ലാം എല്ലാ ഭക്ഷണങ്ങളും എല്ലാ വസ്ത്രങ്ങളും എല്ലാ കാറുകളും ഗാഡ്ജെറ്റുകളുംഎല്ലാം എനിക്കുണ്ട് ആഡംബര ജീവിതം തന്നെ ഉണ്ട് പക്ഷേ ഇപ്പോഴും അവിടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ നമ്മൾ സാമൂഹിക മൃഗങ്ങളായതിനാൽ നമുക്ക് ഒറ്റപ്പെട്ട് ജീവിക്കാൻ കഴിയില്ല അതിനു പകരം ഞാൻ നായ്ക്കളെയോ പശുവിനെയോ സിംഹത്തെയോ അയയ്ക്കുകയാണെങ്കിൽ അവയെ എന്റെ കൂട്ടാളികൾ എന്ന് വിളിക്കാമോ എനിക്ക് അവയ്ക്കൊപ്പം നിൽക്കാം ഞാൻ ഇപ്പോൾ സാമൂഹികമാണോ അടിസ്ഥാനപരമായി അല്ല എന്നെപ്പോലെ തോന്നിക്കുന്ന എന്നോട് സംസാരിക്കാൻ കഴിയുന്ന എനിക്ക് ഇടപഴകാൻ കഴിയുന്ന സഹപ്രവർത്തകരെ എനിക്ക് ആവശ്യമുണ്ട് നായ്ക്കൾ പൂച്ചകൾ സിംഹങ്ങൾ എന്നിവ മാത്രം പോരാ എനിക്ക് മനുഷ്യനെ തന്നെ വേണം അതിനാൽ ആരെങ്കിലും എന്റെ രാജ്യത്ത് നിന്നുള്ളവരായിരിക്കാം അത് ഒരാളുടെ രാഷ്ട്രങ്ങളെയോ വംശത്തെയോ ഒരുപക്ഷേ ഒരേ ഭാഷാ ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഒരേ പട്ടണത്തിൽ നിന്നും ഗ്രാമത്തിൽ നിന്നും വരുന്ന ചിലരെയോ ഭൂമിശാസ്ത്രപരമായി ഒരേ സ്ഥാനങ്ങളിൽ നിന്നുള്ളവരെയോ ഒരേ തൊഴിൽ ചെയ്യുന്നവരെയോ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ നാമെല്ലാവരും ഉൾപ്പെട്ടവരാണ് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ രാജ്യം വംശം ഭാഷാ ഗ്രൂപ്പുകൾ നഗരം തൊഴിലുകൾ എന്നിവയെ അടിസ്ഥാനമാക്കി ഒരുമിച്ച് ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് നമ്മൾ സമൂഹത്തെയും കമ്മ്യൂണിറ്റിയെയും രൂപപ്പെടുത്തുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് അവിടെ താമസിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഒരേ രാജ്യങ്ങളിൽ നിന്നോ ഒരേ ഭാഷാ ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഒരേ ജന്മനാട്ടിൽ നിന്നോ വരുന്ന 3 4 5 ആളുകൾഅവർ ഒരുമിച്ച് താമസിക്കുന്നു ഈ ഡയഗ്രാമിൽ എന്താണ് ഇല്ലാത്തത് എന്താണ് അവിടെ ഇല്ലാത്തത് ഒരു സമൂഹത്തിന് ഒരു മനുഷ്യനെ ആവശ്യമുണ്ട് മനുഷ്യനെ അവിടെ കാണുന്നില്ല അതിനാൽ ഞാൻ എന്താണ് നോക്കേണ്ടത് എനിക്ക് ശരി എന്ന് പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയണം ശരിക്കും നമുക്ക് സമ്മതമാണോ ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്തുകൊണ്ട് എനിക്ക് വീണ്ടും ഒറ്റപ്പെടൽ അനുഭവപ്പെടും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് പരസ്പരം ഒന്നും പങ്കിടാൻ കഴിയില്ല നിങ്ങൾക്ക് പരസ്പരം നോക്കാൻ കഴിയില്ല നിങ്ങൾക്ക് പരസ്പരം സഹായിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് സൌഹൃദം വളർത്തിയെടുക്കാൻ കഴിയില്ല ആ അവസ്ഥയിൽ സൌഹൃദം ഉണ്ടാക്കുക ആ അവസ്ഥയിൽ നിങ്ങൾക്ക് സ്വയം സോഷ്യൽ ആവാൻ കഴിയില്ല അതിനാൽ ഒരു സാമൂഹിക മൃഗമായതിനാൽ എനിക്ക് പരസ്പരം ഇടപഴകാൻ ഉള്ള ആഗ്രഹം ആണ് നഷ്ടമായത് അതിനാൽ ഏതൊരു വ്യക്തികൾക്കും ഏതൊരു സാമൂഹിക മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഇത് സത്യമാണ് നമ്മൾ എല്ലായ്പ്പോഴും പരസ്പരം ഇടപഴകാൻ ശ്രമിക്കുന്നു അങ്ങനെയാണ് നമ്മൾ സമൂഹം രൂപീകരിക്കുന്നത് ഒരു സമൂഹം രൂപീകരിക്കുന്നതിന് ഇടപെടൽ വളരെ പ്രധാനമാണ് അതിനാൽ എന്നാൽ ഇപ്പോൾ ചോദ്യം നിങ്ങൾ എങ്ങനെ ആശയവിനിമയം നടത്തുന്നു എനിക്ക് വ്യത്യസ്ത വ്യക്തിത്വങ്ങളും വേഷങ്ങളും ഉണ്ട് ചിലപ്പോൾ ഞാൻ ഒരു പിതാവാണ് ചിലപ്പോൾ ഞാൻ ഒരു മകനാണ് ചിലപ്പോൾ ഞാൻ ഒരു സുഹൃത്താണ് ചിലപ്പോൾ ഞാൻ ഒരു അധ്യാപകനാണ് അങ്ങനെ ഞാൻ എന്റെ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന രീതി ഞാൻ എന്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന രീതി ഈ 2 ഇടപെടലുകൾ വ്യത്യസ്തമാണ് അതിനാൽ എങ്ങനെ നിയന്ത്രിക്കാം അർദ്ധരാത്രിയിൽ ഞാൻ നിങ്ങളെ വിളിച്ച് ഹായ് ഹലോ ഹൌ ആർ യു എന്ന് പറഞ്ഞാൽ ഇത് സാമൂഹികമായി അംഗീകരിക്കപ്പെട്ടതല്ല ആരും അങ്ങനെ ശല്യപ്പെടുത്തില്ല അതിനാൽ നിങ്ങൾ എങ്ങനെ ആശയവിനിമയം നടത്തുന്നു സാമൂഹിക ഇടപെടലുകൾ നടത്താൻ എന്താണ് സഹായിക്കുന്നത് ഞാൻ എന്ത് തരത്തിലുള്ള സാമൂഹിക ഇടപെടലുകൾ നടത്തണം നിങ്ങൾ ആണ് അത് നിർവ്വചിക്കുന്നത് അതിനാൽ ഞാൻ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവനോട് വളരെ അടുപ്പമുണ്ടെങ്കിൽഅത് ശരിയാണോ അല്ലെങ്കിൽ ഞാൻ കുറച്ച് അകലം പാലിക്കണമോ അല്ലെങ്കിൽ ട്രെയിനിൽ എന്റെ അരികിൽ ഒരു മുതിർന്നയാൾ നിൽക്കുന്നു ഞാൻ അവൾക്ക് സീറ്റ് വാഗ്ദാനം ചെയ്യുന്നില്ല അത് ശരിയാണോ ആരെങ്കിലും എന്നോട് ഹായ് എന്നോ ഹലോ എന്നോ പൊതുവെ പറയുകയാണെങ്കിൽ നമ്മളും ഹലോ അല്ലെങ്കിൽ ഹായ് എന്ന് പറയും എനിക്ക് ഹായ് അല്ലെങ്കിൽ മറ്റെന്തെന്റെ എങ്കിലും അർത്ഥം അറിയില്ല എങ്കിൽ നമ്മൾ സോഷ്യൽ ആവില്ല അതിനാൽ നമ്മുടെ ഇടപഴകൽ നന്നായി നടക്കുന്നില്ല അതിനാൽ ആളുകൾ ഇടപഴകുന്നു പക്ഷേ അവർ ഫലപ്രദമായി ഇടപഴകുന്നില്ലഅവിടെ എന്തോ മിസ്സിംഗ് ഉണ്ട് ആളുകൾ പുകവലിക്കാൻ ആഗ്രഹിക്കുന്നു അവർ പുകവലിക്കുന്നു പക്ഷേ അവർ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നുഅത് ശരിയാണോ ആരെങ്കിലും എന്നോട് നന്ദി പറയുകയാണെങ്കിൽ മറ്റുള്ളവർ ഓക്കേ വെൽകം എന്ന് പറയുന്നു ഇപ്പോൾ ആ സാമൂഹിക ബന്ധം നിലനിർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുഒരാൾ നമസ്തേ പറയുന്നു ഞാൻ നമസ്തേ പറയുന്നു ശരി ഹസ്തദാനം ഞങ്ങൾ ഹസ്തദാനം നൽകി മടങ്ങുകയാണ് സാമൂഹിക ബന്ധം ശരിയായി നിലനിർത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സമൂഹത്തിന് എല്ലായ്പ്പോഴും സാമൂഹിക ബന്ധം നിലനിർത്താൻ കഴിയാത്തത് അതിനാൽ അത് എങ്ങനെ നേടാം ആ സാമൂഹിക ക്രമം എങ്ങനെ നിലനിർത്താം ഈ സാമൂഹിക ഇടപെടലുകൾഅത് വളരെ പ്രധാനമാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് അത് ചെയ്യാൻ കഴിയാത്തത് കാരണം നമുക്ക് വ്യത്യസ്ത മനസ്സും വ്യത്യസ്ത കാഴ്ചപ്പാടുകളും ഓവർലാപ്പിംഗ് റോളുകളും വൈരുദ്ധ്യങ്ങളും ഉണ്ട് അതിനാൽ വ്യക്തികൾക്കിടയിലും ഗ്രൂപ്പുകൾക്കിടയിലും ഔപചാരികവും അനൌപചാരികവുമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും നമ്മൾ സ്ഥാപിക്കുന്നു ചില സമയങ്ങളിലെന്നപോലെ ചില നിയമങ്ങൾ വളരെ ഔപചാരികമാണ് ദയവായി ഇത് നിങ്ങളുടെ വീട്ടിൽ ചെയ്യൂ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല ഇത് പൂർണ്ണമായും വ്യക്തമായും വളരെ രസകരമായി എഴുതിയതായി തോന്നാം ചിലത് ചിലപ്പോൾ വളരെ ഔപചാരികമാണ് നിങ്ങൾക്ക് ഇവിടെ പുകവലിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് കഴിക്കാൻ കഴിയില്ല ഇവിടെ പക്ഷേ ആളുകൾ ക്യൂവിലാണ് ആരും അത് ചെയ്യാൻ പറഞ്ഞില്ല പക്ഷേ അവർ അത് ചെയ്യുന്നു ഇത് വളരെ അനൌപചാരികമാണ് ഇത് ഒരുതരം മറ്റുള്ളവരോടുള്ള മര്യാദയും ബഹുമാനവും കാണിക്കലാണ് പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നും എന്തുചെയ്യരുതെന്നും പറയുന്ന ഒരു സംസ്കാരമാണിത്ചെയ്യുകആയിരിക്കുക വിശദീകരണം നൽകുക ഉദാഹരണമായി ഇടതുവശത്ത് വിശദീകരിക്കുന്നത് പോലെ ഇത് പാരീസിലെ ഒരു മാർക്കറ്റാണെന്ന് നിങ്ങൾക്ക് കാണാംഇത് യു ലെ മറ്റൊരു മാർക്കറ്റ് ആണ് അവർ ഒരേ കാര്യം ചെയ്യുന്നു അവരെല്ലാം ഒരു മാർക്കറ്റിലേക്ക് വന്നു എന്നാൽ അവർക്കൊരു വ്യത്യസ്തമായ മാർക്കറ്റിംഗ് ശൈലിയുണ്ട് ഷോപ്പിംഗ് നടത്തുന്നതിൽഇത് ഒരു വിവാഹവും ഇൻസ്റ്റിറ്റ്യൂഷനുകളുമായി കണക്കാക്കപ്പെടുന്നു എന്നാൽ ഇത് 2 കൾച്ചറിൽ പൂർണമായും വ്യത്യസ്ത തരത്തിൽ ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കാര്യത്തിൽ പരസ്പര സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ആളുകൾ തമ്മിലുള്ള വിവാഹത്തെ ആളുകൾ തമ്മിലുള്ള തിരഞ്ഞെടുപ്പായി വീക്ഷിക്കുന്നു എന്നാൽ ഹിന്ദു വിവാഹത്തിന്റെ കേസിൽ എല്ലാ കേസുകളിലും അല്ല എന്നാൽ പല കേസുകളിലും രണ്ട് കക്ഷികൾ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള അഭിമുഖങ്ങളുടെയും ചർച്ചകളുടെയും സങ്കീർണ്ണമായ പ്രക്രിയയിലൂടെ ആണ് വിവാഹം നടക്കുന്നത് ഇവിടെ രണ്ട് പങ്കാളികൾക്കും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ വളരെ പരിമിതമായ ചോയ്സ് മാത്രമേയുള്ളൂഅല്ലെങ്കിൽ നമ്മൾ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇടതുവശത്ത് ഒരു ഇന്തോനേഷ്യൻ മുസ്ലീം കുടുംബത്തെയും വലതുവശത്ത് യൂറോപ്പിലെ ഒരു ക്രിസ്ത്യൻ അണുകുടുംബത്തെയും കാണാം അവർ വളരെ വ്യത്യസ്തരാണ് പക്ഷേ അവ രണ്ടും കുടുംബമായി കണക്കാക്കപ്പെടുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ റോഡിൽ പശു റോഡിൽ പശുവിനെ കണ്ടാൽ ഇന്ത്യക്കാർ ആശ്ചര്യപ്പെടില്ല പക്ഷേ ഒരു വിദേശി പ്രത്യേകിച്ച് പാശ്ചാത്യ ജനത റോഡിൽ പശുവിനെ കണ്ടാൽ വളരെ ആശ്ചര്യപ്പെടുന്നു ഇത് വളരെ പ്രധാനമാണ് ഇത് വളരെ രസകരമാണ് ബുർക്ക ധരിച്ച മറ്റേ സ്ത്രീ എല്ലാം മൂടിയിരിക്കുന്നുവെന്ന് ഈ സ്ത്രീ കരുതുന്നു എന്നാൽ അവളുടെ കണ്ണുകൾ ഒഴിവാണ് ഇത് വളരെ പുരുഷ മേധാവിത്വമുള്ള സമൂഹമാണെന്ന് അവൾ കരുതുന്നു കാരണം എല്ലാം മൂടിയിരിക്കുന്നു കണ്ണുകൾ മാത്രം തുറന്നിരിക്കുന്നു മറുവശത്ത് ബുർക്ക ധരിച്ച സ്ത്രീ പറയുന്നു ഒന്നും മൂടിയിട്ടില്ല പക്ഷെ അവളുടെ കണ്ണുകൾ തുറന്നിട്ടാണ് അതിനാൽ എന്തൊരു പുരുഷ മേധാവിത്വ സമൂഹമാണിത് അതിനാൽ തങ്ങൾ ഒരു പുരുഷ മേധാവിത്വമുള്ള സമൂഹത്തിൽ നിന്നാണ് വരുന്നതെന്ന് ഇരുവരും മനസ്സിലാക്കുന്നു കാരണം അവരുടെ വസ്ത്രധാരണ രീതിയെ അടിസ്ഥാനമാക്കി സംസ്കാരം ഒരു തരം ലെൻസാണ് അതിലൂടെ നിങ്ങൾ സമൂഹത്തിലേക്ക് എങ്ങനെ നോക്കുന്നു ചിഹ്നം എന്നത് സംസ്കാരത്തിന്റെ ഏറ്റവും നിർണായകമായ ഭാഗമാണ് കാരണം ചിഹ്നങ്ങൾ ഉപയോഗിച്ച് സംവദിക്കാൻ കഴിയുന്നത് മനുഷ്യന് മാത്രം ആണ് മറ്റ് മൃഗങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല നമുക്ക് ചിഹ്നമോ ആംഗ്യമോ വസ്തുക്കളും വാക്കുകളുംചിഹ്നങ്ങളും ഉപയോഗിച്ച് വിവരങ്ങൾ പരസ്പരം കൈമാറാം ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാണ് കുടിവെള്ളം ലഭിക്കുക എന്ന് മറ്റുള്ളവരോട് അർഥം പറയാനും ആശയവിനിമയം നടത്താനും നമുക്ക് വിവിധ വിരലുകളും ഉപയോഗിക്കാം കൂടാതെ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താനുള്ള ഒരു വാക്കായി ഇത് എഴുതാം അതിനാൽ സംസ്കാരത്തിന്റെ ഭാഗമായി കാണുന്ന വ്യത്യസ്ത തരത്തിലുള്ള ചിഹ്നങ്ങൾ നമുക്കുണ്ട് എന്നാൽ ഈ ചിഹ്നം ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിൽ വ്യത്യാസപ്പെടുന്നു ഉദാഹരണമായി ഇതിന്റെ അർത്ഥമെന്താണ് ഇന്ത്യയിൽ ഇത് ചോട്ടാ അല്ലെങ്കിൽ തൊഡാ ആണ്ഇത് വളരെ ചെറിയ തുകയാണ് മറ്റ് രാജ്യങ്ങളിലെ ആളുകൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കുക ഇറ്റലിയിൽ അതിനർത്ഥം നിങ്ങൾ ശരിക്കും എന്താണ് ഉദ്ദേശിച്ചത് എന്നാണ് ഗ്രീസിൽ അതിന്റെ അർഥം പെർഫെക്ട് എന്നാണ് ഒരേ അർഥം ഒരേ വസ്തു എന്നാൽ വ്യത്യസ്ത അർഥം വ്യത്യസ്ത സാംസ്കാരിക ഗ്രൂപ്പുകളിൽ വ്യത്യസ്ത അർത്ഥങ്ങൾ ഈജിപ്തിൽ ക്ഷമയുണ്ടാവുക ക്ഷമയോടെയിരിക്കുക എന്നാണ് ചില അർത്ഥങ്ങൾ ചില ആംഗ്യങ്ങൾ പുഞ്ചിരി പോലെ യൂണിവേഴ്സൽ ആണ്ഞാൻ പുഞ്ചിരിച്ചാൽ ഞാൻ സന്തോഷവാനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുഇത് മിക്കവാറും യൂണിവേഴ്സൽ ആണ് ഉദാഹരണത്തിന് തംബ്സ് അപ്പ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇത് ഒരുതരം പോസിറ്റീവ് ബലപ്പെടുത്തലാണ് റഷ്യയിലും ഓസ്ട്രേലിയയിലും ഇത് ഒരു നിന്ദ്യമായ ശാപമായേക്കാം ഇത് കൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് ചിലർക്ക് ഇത് ഹലോ വേറൊരാൾക്ക് വിട ഓ ഇല്ല ഇല്ല നന്ദി ചിലർക്ക് ഇത് ഞാൻ റോയൽറ്റിയാണ് എന്നാണ് അതിനാൽ ഈ നിറം പോലെ ചുവപ്പ് നിറം നിറം ചുവപ്പാണ് എന്നാൽ വ്യത്യസ്ത സാംസ്കാരിക അല്ലെങ്കിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇതിന് വ്യത്യസ്ത അർത്ഥമുണ്ട് ഇടത് വശത്ത് അതിനർത്ഥം ഒരു പോലീസ് ഉണ്ടെന്നാണ് ശരി ഇത് പോലീസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്തോ ഒരു എമർജൻസി ഉണ്ട് വലതുവശത്ത് ഇത് ചുവന്ന ലൈറ്റ് ആണ് അതിനർത്ഥം നിങ്ങൾ നിർത്തണം എന്നാണ് മധ്യത്തിൽ ഉള്ളത്യഥാർത്ഥത്തിൽ ഒരു വേശ്യാലയം എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് അതായത് വേശ്യാവൃത്തികൾ അതിനാൽ ഈ ചുവന്ന ലൈറ്റിന്റെ അർത്ഥം സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കുന്നുഎഴുത്തിലൂടെയുള്ള ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഭാഷാ ചിഹ്നങ്ങൾ ഉണ്ട്ഇക്കാലത്തു നമ്മൾ ഇമെയിലുകൾ ഇന്റർനെറ്റുകൾ ഡൌൺലോഡ് ടെക്സ്റ്റിംഗ് എന്നിവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് 20 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 30 വർഷങ്ങൾക്ക് മുമ്പ് അത് ഇല്ലായിരുന്നു ഇത് ഞങ്ങൾക്ക് വളരെ പുതിയതാണ് സംസ്കാരത്തിന്റെ മറ്റൊരു പ്രധാന ഘടകം മൂല്യങ്ങളും വിശ്വാസങ്ങളും ആണ് അത് എന്താണ് എന്തുചെയ്യണം എന്താണ് നല്ലത് എന്ത് നല്ലതല്ല എന്ന് തീരുമാനിക്കാനുള്ള സംസ്കാരമാണ് മൂല്യങ്ങൾ അതിനാൽ ആരെങ്കിലും ചൂതാട്ടത്തിലോ ആരെങ്കിലും വളരെ ആഹ്ലാദത്തോടെയോ മദ്യം കഴിക്കുമ്പോഴോ നമുക്ക് ചില മൂല്യങ്ങളുണ്ട് നല്ലതോ ചീത്തയോ വൃത്തികെട്ടതോ മനോഹരമോ ശരിയോ തെറ്റോ അംഗീകരിക്കപ്പെട്ടതോ അംഗീകരിക്കാത്തതോ അഭികാമ്യമൊ അനഭിലഷണീയമൊ ധാർമ്മികമൊ അനീതിയോ എന്നൊക്കെ ഒരാൾ തീരുമാനിക്കുന്നത് മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് അതിനാൽ ധാർമ്മികമായത് അധാർമ്മികമായത് സ്വീകാര്യമല്ലാത്തത് ഇവയെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ മൂല്യങ്ങളാണ് മദ്യം കഴിക്കുന്നത് ചീത്തയോ നല്ലതോ ആണെന്ന് നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും ആർഭാടം ചൂതാട്ടം ഇതൊക്കെ നല്ലതോ ചീത്തയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മൂല്യങ്ങൾ അനുസരിച്ചു മാത്രമാണ് ശരിയാണ് നമ്മുടെ മൂല്യങ്ങൾ മാത്രമാണ് സംസ്കാരം ഈ മൂല്യങ്ങൾ നൽകുന്നത് നമുക്ക് ഒരുതരം മനസ്സും കാഴ്ചയും ലെൻസും നൽകാനാണ് അതിനാൽ നല്ലതും ചീത്തയും വൃത്തികെട്ടതും മനോഹരവും ശരിയും തെറ്റും എല്ലാം സാംസ്കാരിക വീക്ഷണകോണിൽ നിന്ന് നാം കാണുന്നു സാംസ്കാരിക ലെൻസും സംസ്കാരവും നമുക്ക് ഈ മനസ്സ് ഈ കാഴ്ചപ്പാട് വസ്തുക്കളെ കാണാനുള്ള ഈ ലെൻസ് നൽകുന്നുഒരു വസ്തുവും ശരിയോ തെറ്റോ അല്ല ഒരു വസ്തുവും വൃത്തികെട്ടതും മനോഹരവുമല്ല അങ്ങനെയാണ് നമ്മൾ അവയ്ക്ക് അർത്ഥം നൽകുന്നത് അതിനാൽ നമുക്ക് ഈ സാംസ്കാരിക വീക്ഷണമുണ്ട് ഈ മൂല്യങ്ങൾ പിന്നീട് വിശ്വാസങ്ങളിലേക്ക് വരുന്നു ശരിയാണ് ഒരു സമൂഹത്തിലെ വ്യക്തികൾക്ക് ഇത് വിവർത്തനം ചെയ്യാവുന്ന വ്യത്യസ്ത വിശ്വാസങ്ങളുണ്ട് അതിനാൽ ഇത് അമേരിക്കൻ സമൂഹമാണ് അവർ വ്യക്തിഗത സംസ്കാരത്തിൽ വിശ്വസിക്കുന്നു മറുവശത്ത് ജാപ്പനീസ് സമൂഹമുണ്ട് അത് കൂട്ടായ സംസ്കാരത്തിലാണ് പാശ്ചാത്യ സംസ്കാരത്തിൽ ഇത് ഒരുതരം സ്വവർഗരതിയായി കണക്കാക്കാം എന്നാൽ ആഫ്രിക്കയിലെയും മിഡിൽ ഈസ്റ്റിലെയും പല ഭാഗങ്ങളിലും ഇത് സ്വവർഗാനുരാഗമായിട്ടല്ല മറിച്ച് ഐക്യദാർഢ്യമായും സൌഹൃദമായും കണക്കാക്കപ്പെടുന്നു അതിനാൽ ഒരേ കാര്യം സംസ്കാരത്തിൽ നിന്ന് സംസ്കാരത്തിലേക്ക് എങ്ങനെ വ്യത്യാസപ്പെടുന്നു അതിനാൽ ആ മൂല്യങ്ങളും വിശ്വാസങ്ങളും പ്രായോഗികമാക്കുന്നതിന് നമുക്ക് പൊതുവെ മാനദണ്ഡങ്ങളുണ്ട് അതിനാൽ എന്താണ് നല്ലത്വൃത്തികെട്ടത് അത് എങ്ങനെ നിയന്ത്രിക്കാം അതിനാണ് ഈ മൂല്യങ്ങൾ അങ്ങനെയെങ്കിൽ ആ സാമൂഹിക ഇടപെടലുകൾ എങ്ങനെ നിലനിർത്താംനമ്മൾ സാമൂഹിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിഅതിനെയാണ് സാമൂഹിക മാനദണ്ഡങ്ങൾ എന്ന് വിളിക്കുന്നത് ഈ സാമൂഹിക മാനദണ്ഡങ്ങൾ ചിലപ്പോൾ ഔപചാരികവും ചിലപ്പോൾ വളരെ അനൌപചാരികവുമാണ് തുമ്മുമ്പോൾ നിങ്ങൾ കൈകൾ കൊണ്ട് കവർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ വഞ്ചന ചെയ്യരുത് അല്ലെങ്കിൽ മദ്യം കഴിക്കരുത് ചിലത് വളരെ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളാണ് ചിലത് വളരെ അപ്രധാനമായ മാനദണ്ഡങ്ങളാണ് അങ്ങനെയാണ് സംസ്കാരം പ്രവർത്തിക്കുകയും നമുക്ക് അത് നൽകുകയും ചെയ്യുന്നത് അതിനാൽ അപകടസാധ്യതയുടെ സാംസ്കാരിക പശ്ചാത്തലം പറയുന്നത്സംസ്കാരം പ്രധാനമാണ് ആളുകൾ എങ്ങനെ അത് നിർവചിക്കുന്നു എന്താണ് ശരി അല്ലെങ്കിൽ തെറ്റ് എന്താണ് അപകടകരം അല്ലെങ്കിൽ അപകടകരമല്ലാത്തത്എന്നിങ്ങനെ നിരവധി ഉദാഹരണങ്ങളുണ്ട് എന്നാൽ അപകടസാധ്യതകൾ സാംസ്കാരികമായി നിർമ്മിച്ചതാണ് ആളുകൾ അവരുടെ ചുറ്റുമുള്ള ലോകത്തെ എങ്ങനെ മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നത് ജീവിതരീതിയെയും സാമൂഹിക ബന്ധത്തിന്റെയും സാംസ്കാരിക പക്ഷപാതത്തിന്റെയും സംയോജനത്തെയും ആശ്രയിച്ചിരിക്കുന്നു വളരെ നന്ദി